ഇനി നമ്മൾ കോപ്പിറൈറ്റുകളെ കുറിച്ചാണ് വിശദമായി പഠിക്കാൻ പോകുന്നത് കോപ്പിറൈറ്റ് എന്നതിൻറെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം കൂടുതൽ കോപ്പികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്നതാണ് അപ്പോൾ ഒരാൾക്ക് കൂടുതൽ കോപ്പികൾ എടുക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു മാധ്യമം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിനു നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം പകർപ്പുകൾ ഒരു മാധ്യമത്തിലൂടെ നിർമിക്കുന്നു എന്നോ അല്ലെങ്കിൽ പകർപ്പുകൾ മാധ്യമത്തിലൂടെ കൈമാറുന്നു എന്നോ കോപ്പികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കാണാൻ സാധിക്കും പകർപ്പവകാശം വെളിപ്പെടുന്നത് വർക്കുകളിന്മേൽ ആണ് ഈ വർക്കുകൾ എന്ന് പറയുന്നത് ബുദ്ധിപരമോ സൃഷ്ടിപരമോ ആയ പരിശ്രമത്തിലൂടെ കൈവരുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഉൽപന്നമാണ് അപ്പോൾ എന്താണ് കോപ്പിറൈറ്റ് അഥവാ പകർപ്പവകാശം കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസിവ് റൈറ്റ് ആണ് നിയമത്തിലൂടെയാണ് ഈ അവകാശം കൈവരുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കാണ് ഈ അവകാശം നിലനിൽക്കുന്നത് മറ്റേതൊരു ബൌദ്ധിക സ്വത്തിനേയും പോലെ കോപ്പിറൈറ്റും അഥവാ പകർപ്പവകാശവും ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഇതൊരു സമയബന്ധിതമായ അവകാശമാണ് അതുകൊണ്ടുതന്നെ ഇതൊരു ലിമിറ്റഡ് ലൈഫ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി അഥവാ ബൌദ്ധിക സ്വത്ത് ആണ് ഈ ഒരു ആശയം തുടർന്നുവരുന്ന ഭാഗത്ത് നമ്മൾ വിശദമായി കാണുന്നതാണ് ആർക്കാണ് കോപ്പിറൈറ്റ് അഥവാ പകർപ്പവകാശം ഉണ്ടാകുന്നത് അഥവാ ലഭിക്കുന്നത് കോപ്പിറൈറ്റ് ലഭിക്കുന്നത് ഗ്രന്ഥകർത്താക്കൾ ഗാനരചയിതാക്കൾ കലാകാരന്മാർ കലാപരവും സാഹിത്യപരവുമായ സൃഷ്ടികൾ ഉണ്ടാക്കുന്നവർ നാടകമോ അതുപോലുള്ള സൃഷ്ടിപരമായ വർക്കുകളോ ചെയ്യുന്നവർ എന്നിവർക്കാണ് ആരാണോ പുതിയ സൃഷ്ടികൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരാണോ സൃഷ്ടിപരമായ വർക്കുകളും ആയി മുന്നോട്ടു വരുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് കോപ്പിറൈറ്റ് ഇവർ അവകാശം മറ്റാർക്കെങ്കിലും അസൈൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൈ മാറുകയാണെങ്കിൽ അവരും ഇതിൽ ഉൾപ്പെടുന്നു ഒരു ഗ്രന്ഥകാരൻ അയാൾ പുസ്തകമെഴുതി അതിൻറെ അവകാശം ഒരു പ്രസാധകന് കൈമാറുന്നു ഈ സാഹചര്യത്തിൽ പ്രസാധകൻ ഗ്രന്ഥത്തിൻറെ കോപ്പിറൈറ്റ് ഉടമസ്ഥൻ ആകുന്നു എഴുത്തുകാരൻറെ ഒറിജിനൽ വർക്കായ ഈ പുസ്തകം അച്ചടിക്കാനും പ്രസാധനം ചെയ്യാനും വിൽക്കാനും ഉള്ള അവകാശമാണ് പബ്ലിഷർക്ക് ലഭിക്കുന്നത് ഇവിടെ നമ്മൾ ഒരു വാക്ക് ഉപയോഗിച്ചു വർക്ക് അതാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പകർപ്പവകാശത്തിൽ പകർപ്പുകൾ ഉണ്ടാക്കുന്നതിന് ഏതെങ്കിലും ഒരു രീതിയിലുള്ള മാധ്യമം ആവശ്യമാണ് എന്ന് അപ്പോൾ ഈ വർക്ക് ആണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ മാധ്യമം എന്നത് ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ വരുന്നു എന്ന് പറയുന്നത് ഈ വർക്കിൻറെ ആണ് കൂടുതൽ കോപ്പികൾ എടുക്കാൻ സാധിക്കുന്നത് കോപ്പിറൈറ്റ് അഥവാ പകർപ്പവകാശം എന്ന ആശയത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടുകാര്യങ്ങളാണ് ഒന്നാമത്തെത് കൂടുതൽ കോപ്പികൾ എടുക്കാനുള്ള അവകാശമാണിത് രണ്ടാമത്തേത് ഈ പകർപ്പ് എടുക്കാനുള്ള അവകാശം നിലനിൽക്കുന്നത് സൃഷ്ടിപരമായ ഒറിജിനൽ വർക്കിനു മേൽ ആണ് എന്നതാണ് കോപ്പികൾ എടുക്കാനോ ഉണ്ടാക്കാനോ ഉള്ള അവകാശം നിലനിൽക്കുന്നത് സാഹിത്യപരമോ കലാപരമോ ആയ വർക്കുകളിന്മേലാണ് അത് ഫിലിമുകളിലും സൌണ്ട് റെക്കോർഡിങിലും നിലനിൽക്കുന്നുണ്ട് നമ്മൾ സൂചിപ്പിച്ചു പകർപ്പ് എടുക്കാനുള്ള അവകാശം നിലനിൽക്കുന്നത് സാഹിത്യപരമോ കലാപരമോ ആയ വർക്കുകളിന്മേൽ ആണെന്ന് മറ്റൊന്ന് കൂടെ നമ്മൾ സൂചിപ്പിച്ചു സംപ്രേഷണം ചെയ്യാനും വിൽക്കാനും ഉള്ള അവകാശങ്ങൾ കൂടി ഉണ്ട് എന്ന് കോപ്പികൾ എടുക്കാനുള്ള അവകാശം എന്നു പറയുന്നത് അതിൽ തന്നെ ഒരു അന്ത്യമല്ല എന്തിനാണ് കൂടുതൽ കോപ്പികൾ എടുക്കുന്നത് വലിയ നമ്പറുകളിൽ കോപ്പികൾ ഉണ്ടാക്കുന്നത് അതിലൂടെ ലാഭമുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഒറിജിനൽ വർക്കിൽ നിന്ന് പരമാവധി മുതലെടുക്കുന്നതിനുവേണ്ടി അഥവാ എക്സ്പ്ളോയിറ്റ് ചെയ്യുന്നതിനു വേണ്ടി അതിന്മേൽ ആർക്കെങ്കിലും അവകാശം കൊടുക്കുക ലൈസൻസ് അനുവദിക്കുക എന്നു പറഞ്ഞാൽ അതിനർത്ഥം അത് വിൽക്കുന്നതിനുള്ള ലൈസൻസ് നൽകുന്നു എന്നാണ് പകർപ്പവകാശം ചെയ്യപ്പെട്ട ഒരു വർക്ക് വിൽക്കാനുള്ള അനുമതി നൽകുക എന്ന് പറയുമ്പോൾ വിൽപനയിലൂടെ നിർമാതാവിന് പ്രതിഫലം ലഭിക്കുന്നു കോപ്പിറൈറ്റ് ചെയ്ത ഒരു വർക്കിന് ലൈസൻസ് നൽകുന്നു എന്ന് പറയുമ്പോഴും അവിടെ വീണ്ടും കോപ്പിറൈറ്റ് ഹോൾഡർക്ക് പ്രതിഫലം ലഭിക്കുന്നു ഇതാണ് എക്സ്പ്ളോയിറ്റേഷൻ അഥവാ മുതലെടുക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിയമം വഴി കോപ്പികൾ എടുക്കാനുള്ള അവകാശം നൽകുന്നു എന്ന് പറയുമ്പോൾ ഉടമസ്ഥന് തൻറെ വർക്ക് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി മുതലെടുക്കുന്നതിന് അഥവാ എക്സ്പ്ളോയിറ്റ് ചെയ്യുക എന്നതിനുള്ള അനുമതി നൽകലാണ് എന്ന് ഉദാഹരണത്തിന് ഒരു വ്യക്തി തൻറെ പുസ്തകം പ്രസാധനം ചെയ്യുന്നു എന്നിരിക്കട്ടെ ആ പുസ്തകത്തിൽ അദ്ദേഹം കോപ്പിറൈറ്റിനുള്ള അവകാശം ഉൾപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പുസ്തകത്തിൻറെ കോപ്പിറൈറ്റ് അവകാശിയായി മാറുന്നു കോപ്പിറൈറ്റ് സിംബൽ എന്ന് പറയുന്നത് ഒരു വൃത്തത്തിനുള്ളിൽ അടയാളപ്പെടുത്തിയ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സ്മാൾ ലെറ്റർ 'c' ആണ് അപ്പോൾ ഗ്രന്ഥകർത്താവ് തൻറെ പുസ്തകത്തിൽ കോപ്പിറൈറ്റ് സിംബൽ അടയാളപ്പെടുത്തി ഇതേതുടർന്ന് ഗ്രന്ഥകർത്താവിൻറെ പേരായി തൻറെ പേരും ആ പുസ്തകം ഏത് വർഷമാണ് പ്രസാധനം ചെയ്തത് ആ വർഷവും രേഖപ്പെടുത്തുമ്പോൾ അദ്ദേഹം അതിലൂടെ കോപ്പിറൈറ്റ് ആവകാശപ്പെടുകയാണ് ഇതാണ് നമ്മൾ മിക്കവാറും എല്ലാ പുസ്തകത്തിലും കാണുന്ന കോപ്പിറൈറ്റ് നോട്ടീസ് എന്ന് പറയുന്നത് ഒന്നുകിൽ അവിടെ ഗ്രന്ഥ കർത്താവിൻറെ പേരോ അതുമല്ലെങ്കിൽ ആ പുസ്തകം പ്രസാധനം ചെയ്ത പബ്ലിഷറുടെ പേരോ ആണ് കോപ്പിറൈറ്റ് ഓണറുടെ സ്ഥാനത്ത് നമ്മൾ കാണുക കോപ്പിറൈറ്റ് ഓണറുടെ സ്ഥാനത്ത് പബ്ലിഷറുടെ പേരാണ് നമ്മൾ കാണുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഗ്രന്ഥകർത്താവ് തൻറെ പുസ്തകമെഴുതി പകർപ്പവകാശം പബ്ലിഷർക്ക് അസൈൻ ചെയ്തുകൊടുത്തു എന്നോ അല്ലെങ്കിൽ പബ്ലിഷർ തൻറെ കീഴിൽ ഒരു കൂട്ടം എഴുത്തുകാരെ ജോലിക്ക് ഇരുത്തി പുസ്തകങ്ങൾ എഴുതിക്കുകയും കോപ്പിറൈറ്റ് നോട്ടീസിൽ പബ്ലിഷറുടെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്നോ ആണ് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റുകളിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ സ്ഥാപിക്കാവുന്ന റൈറ്റാണ് കോപ്പിറൈറ്റ് അഥവാ പകർപ്പവകാശം കാരണം നമ്മൾ പറഞ്ഞു ഏതൊരു സാഹിത്യസൃഷ്ടിയിലും കോപ്പിറൈറ്റ് നിലനിൽക്കുന്നുണ്ടായിരിക്കും അതൊരുപക്ഷേ ഒരു ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള സാഹിത്യസൃഷ്ടി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് എഴുതുന്ന ഒരു കത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തക് അയച്ച ഒരു ഇമെയിൽ ആയിരിക്കാം ഏതൊരു എഴുതപ്പെട്ട വർക്കും അല്ലെങ്കിൽ സൃഷ്ടിയും സാഹിത്യ സൃഷ്ടിയാണ് സാഹിത്യസൃഷ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒന്നാണ് അക്ഷരജ്ഞാനമുള്ള ഏതൊരാൾക്കും സാഹിത്യപ്രവർത്തനം ചെയ്യുകയും പുസ്തകങ്ങൾ എഴുതുകയും ചെയ്യാവുന്നതാണ് കോപ്പിറൈറ്റ് ചെയ്യപ്പെടുന്നതിന് ഇങ്ങനെ എഴുതപ്പെടുന്ന കൃതികൾക്ക് എന്തെങ്കിലും മൂല്യം ഉണ്ടായിരിക്കണമെന്നോ എന്തെങ്കിലും പ്രത്യേക യോഗ്യതകൾ ഉണ്ടാകണമെന്നോ കോപ്പി റൈറ്റ് നിയമം അനുശാസിക്കുന്നില്ല കോപ്പിറൈറ്റ് അനുവദിക്കുന്നതിന് ഇത്തരം മാനദണ്ഡങ്ങളിലേക്കോ അതിൻറെ വിശദാംശങ്ങളിലേക്കോ കോപ്പിറൈറ്റ് കടക്കുന്നില്ല ഒരു സാഹിത്യ സൃഷ്ടി ഒറിജിനൽ ആയിട്ടുള്ള ഒരു സാഹിത്യസൃഷ്ടി ആണ് എന്നതിൻറെ പേരിൽ അതൊരു ഗ്രന്ഥകാരൻറെ പേരിലറിയപ്പെടുന്നുവെങ്കിൽ അതിന് കോപ്പിറൈറ്റ് അവകാശപ്പെടാം എന്തിനധികം നിങ്ങൾ അയക്കുന്ന ഒരു എസ് എം എസോ ഒരു ടെക്സ്റ്റ് മെസ്സേജോ പോലും ഒരു ലിറ്റററി വർക്ക് ആകാം നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകനയക്കുന്ന ഒരു ഇ മെയിൽ സാഹിത്യസൃഷ്ടി ആകാം അതുകൊണ്ടാണ് പറയുന്നത് കോപ്പി റൈറ്റ് ആണ് ഏറ്റവും എളുപ്പത്തിൽ സ്വന്തമാക്കി എടുക്കാവുന്ന ഒരു ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് അക്ഷരജ്ഞാനം ഉള്ള ഏതൊരാൾക്കും ഏതാനും വരികൾ എഴുതാൻ സാധിക്കും എന്നുള്ളതിനാൽ കോപ്പിറൈറ്റിനുള്ള വളരെ പ്രബലമായ ഒരു സബ്ജക്ട് മാറ്ററായി ഇത് വരുന്നു മാത്രമല്ല കോപ്പി റൈറ്റ് സ്വന്തമെന്നവകാശപ്പെടാൻ മറ്റു വളരെയധികം നടപടിക്രമങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് താരതമ്യേന എളുപ്പമായ ഒരു പ്രവർത്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതു പോലെ ചെയ്ത വർക്കിനുള്ളിൽ കോപ്പിറൈറ്റ് നോട്ടീസ് ഉൾപ്പെടുത്തേണ്ട ആവശ്യമേയുള്ളൂ കോപ്പിറൈറ്റ് സ്വന്തമാക്കുവാൻ പാറ്റേൺസിൻറേയോ ട്രേഡ്മാർക്കിൻറേയോ കാര്യത്തിൽ കണ്ടതുപോലെ കോപ്പിറൈറ്റിൻറെ കാര്യത്തിൽ അപേക്ഷ പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ട ആവശ്യകത ഇല്ല ഉൽപ്പന്നം അഥവാ വർക്ക് പൂർത്തിയായ ഉടനെ കോപ്പിറൈറ്റ് പ്രയോജനം അതിൻറെ സൃഷ്ടികർത്താവിന് ലഭിക്കുകയാണ് താനാണ് അതിൻറെ ഉടമസ്ഥൻ എന്ന് കാണിക്കുന്നതിനു വേണ്ടി പ്രത്യേക ചിലവുകൾ ഒന്നും വരുന്നില്ല ഗ്രന്ഥകർത്താവ് പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കുന്ന ആ കോപ്പിറൈറ്റ് നോട്ടീസ് കൊണ്ട് തന്നെ കോപ്പിറൈറ്റിനുള്ള അവകാശം അദ്ദേഹത്തിന് സംസിദ്ധമാകുന്നു എന്തുകൊണ്ടാണ് ഈ അവകാശം നിലനിൽക്കുന്നത് നമ്മൾ തൊട്ടു മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ റൈറ്റ് ഗ്രന്ഥകർത്താക്കളേയും നിർമാതാക്കളേയും സംരക്ഷിക്കുന്നതിനാണ് അവർക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഇതിൻറെ അനേകം കോപ്പികൾ ഉണ്ടാക്കി വിൽക്കുന്നതിനും അങ്ങനെ സാമ്പത്തികമായി പരമാവധി മുതലെടുക്കുന്നതിനും സഹായിക്കുകയാണ് ഈ അവകാശം നിലനിൽക്കുന്നില്ലാത്ത ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും ഒരു ഗ്രന്ഥകർത്താവ് പുസ്തകമെഴുതി ഉടനെതന്നെ മറ്റുള്ളവർ അതിൻറെ പകർപ്പെടുത്ത് കമ്പോളത്തിൽ ലഭ്യമാക്കാൻ തുടങ്ങും അത് ആ വ്യക്തിയുടെ അവകാശത്തിൻ്മേലുള്ള കടന്നുകയറ്റത്തിന് കാരണമാകും അതായത് ഇൻഫ്രിൻജ്മെൻറ് കോപ്പിറൈറ്റിന്മേലുള്ള ഇൻഫ്രിൻജ്മെൻറ് എന്ന് പറയുന്നത് അനുവാദമില്ലാതെ ഉപയോഗിക്കുക എന്നതാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഒരുപക്ഷേ അനേകം കോപ്പികൾ ഉണ്ടാക്കുന്നതിനായിരിക്കാം അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഒരു നാടകം എഴുതുന്നതിനായിരിക്കാം ആ പുസ്തകം മൊഴിമാറ്റം ചെയ്യുന്നതിനായിരിക്കാം അതുമല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നതിനായിരിക്കാം എന്തുതന്നെയായാലും കോപ്പിറൈറ്റ് ഓണറുടെ അനുവാദമില്ലാതെ മുകളിൽ പറഞ്ഞ പ്രവർത്തികൾ ചെയ്യുന്നതിനെയാണ് ഇൻഫ്രിൻജ്മെൻറ് എന്ന് പറയുന്നത് ഇൻഫ്രിൻജ്മെൻറിൽ നിന്നുള്ള റിലീഫ് എന്ന് പറയുന്നത് ഒരു നിരോധന ഉത്തരവ് ആയിരിക്കാം ഇത് കോടതിയിൽ നിന്നും ലഭിക്കുന്ന ഒരു ഓർഡർ ആണ് അവകാശ ലംഘനം നടത്തുന്ന ആളെ അയാൾ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും വിലക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു കോടതി ഉത്തരവ് അതുമല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഉടമസ്ഥൻറെ അവകാശത്തിന്മേൽ കടന്നുകയറിയ ആളുടെ പ്രവർത്തി മൂലം ഉണ്ടായ നഷ്ടത്തിന് തക്ക പരിഹാരം ആയിരിക്കാം കോപ്പിറൈറ്റ് ഒരു അവകാശം എന്ന നിലയ്ക്ക് ഒഴിവുകഴിവുകളും പരിമിതികളും ഇല്ലാതില്ല എന്ന് വെച്ചാൽ കോപ്പിറൈറ്റിന് ചില പ്രത്യേക ഒഴിവുകഴിവുകളും പരിമിതികളും ഉണ്ട് എന്നർത്ഥം ഫെയർ യൂസ് അല്ലെങ്കിൽ ഫെയർ ഡീലിംഗ് അതുപോലൊരു ഒഴിവു കഴിവാണ് ഫെയർ യൂസ് അല്ലെങ്കിൽ ഫെയർ ഡീലിംഗ് പ്രകാരം ആളുകളെ കോപ്പിറൈറ്റഡ് വർക്ക് എടുത്ത് ഉപയോഗിക്കാൻ അനുവദിക്കുന്നു ഉദാഹരണത്തിന് കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകം ഒരാൾ വാങ്ങുന്നു എന്നിരിക്കട്ടെ അദ്ദേഹത്തിന് ആ പുസ്തകത്തിലെ ചില ഫോട്ടോഗ്രാഫുകൾ അല്ലെങ്കിൽ ഏതാനും കുറച്ച് പേജുകൾ ഫോട്ടോ കോപ്പി എടുക്കണം കോപ്പിറൈറ്റ് നിയമപ്രകാരം കോപ്പികൾ എടുക്കുന്നത് അനുവദനീയമല്ല എങ്കിലും ചില പ്രത്യേക നിയമങ്ങൾ പ്രകാരം കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ട പുസ്തകങ്ങളുടെ ചില ഭാഗങ്ങൾ മാത്രം അല്ലെങ്കിൽ കുറച്ചു ഭാഗം മാത്രം കോപ്പി ചെയ്യുന്നതിന് അനുവദിക്കുന്നുണ്ട് കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ട പുസ്തകത്തിൻറെ കുറച്ചു പേജുകൾ മാത്രം കോപ്പിയെടുക്കാൻ അനുവദിക്കുന്നത് ചില പ്രത്യേക നിബന്ധനകൾ വച്ചുകൊണ്ടാണ് അതായത് കോപ്പിയെടുക്കുന്നത് വ്യക്തിപരമായ ഉപയോഗത്തിനായിരിക്കണം സ്വന്തം പഠനാവശ്യത്തിനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനും അറിവുപകരുന്നതിനും ഒക്കെയാണ് ഇപ്രകാരം കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ട പുസ്തകത്തിലെ ഏതാനും ഭാഗങ്ങൾ മാത്രം കോപ്പിയെടുക്കാൻ അനുവദിക്കുന്നത് മറ്റൊന്നാണ് കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ട പുസ്തകം വാങ്ങി ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നു ലൈബ്രറി അംഗങ്ങൾക്ക് ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിനായി എടുക്കാവുന്നതാണ് ഇതും അനുവദിക്കപ്പെട്ട സംഗതിയാണ് അപ്പോൾ ഫെയർ യൂസ് അല്ലെങ്കിൽ ഫെയർ ഡീലിംഗ് എന്ന് പറയുന്നത് കോപ്പിറൈറ്റ് ഉടമസ്ഥന് നൽകപ്പെട്ടിരിക്കുന്ന അവകാശത്തിന്മേൽ ഉള്ള ചില ഒഴിവുകഴിവുകൾ ആണ് കോപ്പിറൈറ്റ് നിലനിൽക്കുന്നത് ഒറിജിനൽ വർക്കിന്മേൽ ആണ് അപ്പോൾ ഒറിജിനാലിറ്റി കോപ്പിറൈറ്റിനുള്ള ഒരു അവശ്യഘടകമാണ് സാഹിത്യം നാടകം പാട്ട് കല തുടങ്ങിയ വർക്ക് ഏരിയകളിൽ ഒറിജിനാലിറ്റി ഒരു അവശ്യഘടകമാണ് എന്നാൽ സൌണ്ട് റെക്കോർഡിങ് അഥവാ ശബ്ദ ചിത്രീകരണം ബ്രോഡ്കാസ്റ്റിങ് അഥവാ സംപ്രേഷണം അച്ചടി സംബന്ധമായ ക്രമീകരണങ്ങൾ എന്നിവയ്ക്ക് ഒറിജിനാലിറ്റി ഒരു അവശ്യ ഘടകമല്ല ഇനി നമ്മൾ എങ്ങനെയാണ് ഈ കോപ്പിറൈറ്റ് ഉരുത്തിരിഞ്ഞുവന്നത് എന്ന് കാണും പേറ്റൻറ് ലോയിലെ ഒറിജിനാലിറ്റിയും കോപ്പിറൈറ്റിലെ ഒറിജിനാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണും പേറ്റൻറ് ലോയിൽ നമ്മൾ ഒറിജിനാലിറ്റി എന്ന് പറയുകയില്ല മറിച്ച് കണ്ടുപിടിത്തം നോവൽ ആയിരിക്കണം എന്നാണ് പറയുക എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പേറ്റൻറ് അപേക്ഷയിൽ വിവരിക്കുന്ന കാര്യങ്ങൾ ഇതിനു മുൻപുള്ള പ്രയർ ആർട്ടിൽ ഉണ്ടാകാൻ പാടില്ല അതായത് ഈ അറിവ് മുൻപ് നിലനിൽക്കുന്നത് ആയിരിക്കരുത് എന്ന ചുരുക്കം എന്നാൽ കോപ്പിറൈറ്റ് നിയമത്തിൽ ഒറിജിനാലിറ്റി എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ആ വർക്ക് യൂണിക് അഥവാ തനതായിരിക്കണം എന്നാണ് അത് ഗ്രന്ഥകർത്താവിൽ നിന്ന് തന്നെ വന്നതായിരിക്കണം അപ്പോൾ കോപ്പിറൈറ്റ് നിയമത്തിൽ ഒറിജിനാലിറ്റി പരിശോധിക്കുന്നത് അത് ഗ്രന്ഥ കർത്താവിൽ നിന്നും ഉത്ഭവിച്ചതാണോ അദ്ദേഹം തന്നെ എഴുതിയതാണോ എന്നതിൻറെ അടിസ്ഥാനത്തിലാണ് അതായത് ഗ്രന്ഥകർത്താവിൻറെ ബൌദ്ധികമായ വ്യായാമത്തിൻറെ ഫലം ആയിരിക്കണം ഗ്രന്ഥമെന്നർത്ഥം അപ്പോൾ കോപ്പിറൈറ്റിൻറെ കാര്യത്തിൽ ഒറിജിനൽ ആണെന്ന് തെളിയിക്കുവാൻ രണ്ടു കാര്യങ്ങൾ നോക്കിയാൽ മതി ഈ വർക്ക് ഗ്രന്ഥകർത്താവിൻറെ ബൌദ്ധിക വ്യായാമത്തിൽ നിന്നുണ്ടായതാണോ അത് ഗ്രന്ഥകർത്താവിൽ നിന്നുതന്നെ ഉണ്ടായതാണോ എന്നീ രണ്ടു കാര്യങ്ങൾ കോപ്പിറൈറ്റ് നിയമത്തിലുള്ള ഈ ഒരു ആവശ്യത്തെ എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കും ഏതെങ്കിലും ഓഫീസോ സ്ഥാപനമോ ഒറിജിനാലിറ്റി പരിശോധിച്ചതിനു ശേഷം മാത്രമേ കൊടുക്കാവൂ എന്നില്ല വർക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ തന്നെ കോപ്പിറൈറ്റ് അനുവദിക്കുകയാണ് ഒറിജിനാലിറ്റിയെ കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം ഉയരുന്നത് ഇൻഫ്രിൻജ്മെൻറ് ഉണ്ടാകുമ്പോഴാണ് അതായത് ഒറിജിനാലിറ്റി നിശ്ചയിക്കുന്നതിന് ഗുണപരത ഒരു ഘടകമായി മാറുന്നില്ല ഉദാഹരണത്തിന് രവീന്ദ്രനാഥ ടാഗോറിന് അദ്ദേഹത്തിൻറെ കവിതയിന്മേൽ കോപ്പിറൈറ്റ് ഉണ്ട് സമാനമായ രീതിയിൽ ഒരു സ്കൂൾ വിദ്യാർഥി എഴുതിയ കവിത ആണെങ്കിൽ പോലും രവീന്ദ്രനാഥ ടാഗോറിന് കിട്ടിയ അതേ രീതിയിലുള്ള സംരക്ഷണം വിദ്യാർത്ഥിയുടെ വർക്കിനും കിട്ടുന്നതാണ് അങ്ങനെ വരുമ്പോൾ സംരക്ഷണം അതിൻറെ ക്വാളിറ്റിയെ അഥവാ ഗുണപരതയെ ആശ്രയിച്ചല്ല നിൽക്കുന്നത് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥ ക്വാളിറ്റി പരിശോധിച്ചു കൊള്ളും അത്ര നീതിപൂർവം അല്ലാത്ത ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകാനിടയുണ്ട് അതായത് ഏതെങ്കിലും ഒരു കലാസൃഷ്ടിയുടെ ഗുണപരതയെ പരിശോധിച്ച് തീർപ്പുകൽപ്പിക്കാനും ആ വിധത്തിൽ കലാസൃഷ്ടിയെ പറ്റി നിരൂപണാത്മക വിമർശനം നടത്താനും കോടതിക്കും നീതിപാലകർക്കും അവകാശം നൽകപ്പെടുന്ന ഒരു അവസ്ഥ നന്ദിപൂർവം നമുക്ക് അനുസ്മരിക്കാം ഇന്ത്യയിൽ അപ്രകാരം ഒരു ക്രമീകരണം ഇല്ല കോപ്പിറൈറ്റിന്മേലുള്ള തർക്കങ്ങൾ കോടതി മുൻപാകെ എത്തുമ്പോൾ അവർ ഒരിക്കലും അതിൻറെ ഗുണപരതയെ പരിശോധിക്കാൻ നിൽക്കാറില്ല മറിച്ച് വർക്ക് ഇൻഫ്രിൻജ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കാറുള്ളൂ നമ്മൾ ഇപ്പോൾ തന്നെ പറഞ്ഞു വെച്ച ഒറിജിനാലിറ്റിയുടെ ആവശ്യകത ശബ്ദ ചിത്രീകരണത്തിനോ സംപ്രേഷണത്തിനോ അച്ചടിയുടെ ക്രമീകരണങ്ങൾക്കോ ബാധകമല്ല ഇവയെ നമ്മൾ ഡെറിവേറ്റീവ്സ് അഥവാ വ്യുൽപ്പന്നങ്ങൾ എന്നാണ് വിളിക്കുക കാരണം ശബ്ദ ചിത്രീകരണവും സംപ്രേഷണവും അച്ചടിയുടെ ക്രമീകരണങ്ങളും ഒരുപക്ഷേ നേരത്തെ നിലവിലിരിക്കുന്ന സാഹിത്യം നാടകം പാട്ട് കല എന്നിത്യാദി വർക്കുകളിൽ നിന്നും ഉണ്ടാകുന്നതായിരിക്കാം ശബ്ദ ചിത്രീകരണത്തെയും സംപ്രേഷണത്തെയും അച്ചടിയുടെ ക്രമീകരണങ്ങളെയും നമ്മൾ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത് അവക്ക് ഒറിജിനാലിറ്റിയുടെ ആവശ്യകത ഇല്ല എന്നതുകൊണ്ടാണ് ഒരു സംപ്രേഷണം നടക്കുമ്പോൾ എല്ലാ സംപ്രേഷണങ്ങൾക്കും അതിൻറെതായ ഒരു കോപ്പി റൈറ്റ് നിലവിൽ വരുന്നു ഉദാഹരണത്തിന് ഒരു ജീവചരിത്രം ഇന്ന് സംപ്രേഷണം ചെയ്തു എന്നിരിക്കട്ടെ അതിന്മേൽ ഒരു കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ നിലവിൽ വരികയാണ് ഇതേ ജീവചരിത്രം നാളെ വീണ്ടും പുനസംപ്രേഷണം ചെയ്യുകയാണെങ്കിൽ നാളത്തെ സംപ്രേഷണത്തിന് വീണ്ടും ഒരു വ്യത്യസ്തമായ കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ നിലവിൽ വരുന്നു മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഒരു പുസ്തകത്തിൻറെ 17 എഡിഷൻസ് പുറത്ത് വരികയാണെങ്കിൽ എല്ലാ 17 എഡിഷനുകൾക്കും വ്യത്യസ്തമായ കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ ആണ് ലഭിക്കുന്നത് സിനിമകൾ ഒറിജിനൽ വർക്ക് ആയിട്ടാണ് കണക്കാക്കുക അതിനകത്ത് ശബ്ദ ചിത്രീകരണവും സംപ്രേഷണവും ഉണ്ടെന്നു വരികിലും കോപ്പിറൈറ്റ് ലോ വർഷങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഇവയെ ഒറിജിനൽ ആയിട്ടാണ് കരുതിവന്നിരുന്നത് കോപ്പിറൈറ്റിൻറെ വ്യാപ്തി കോപ്പികൾ എടുക്കാനുള്ള ആവകാശത്തിൽ നിന്നും കുറച്ചുകൂടെ മുന്നോട്ടുപോകുന്നുണ്ട് വിശാലമാകുന്നുണ്ട് കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻ സാഹിത്യ സൃഷ്ടികളുടെ മൊഴിമാറ്റത്തിനും ലഭിക്കുന്നു പൊതുവായ സ്ഥലത്തുള്ള അവതരണങ്ങൾക്ക് ലഭിക്കുന്നു ഉദാഹരണത്തിന് കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ട ഒരു നാടകഗ്രന്ഥം ഉണ്ടെങ്കിൽ ആ നാടകത്തിൻറെ അവതരണത്തിനും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് സാങ്കേതികമായ പുരോഗതിക്കും ഈ കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻറെ ഫലം ലഭിക്കുന്നു ഉദാഹരണത്തിന് നാടകം സംപ്രേഷണം ചെയ്യണമെങ്കിൽ ഒരു സ്റ്റേജിൽ വച്ച് അത് അവതരിപ്പിക്കണമെങ്കിൽ നല്ല ഒരു സാഹിത്യ ഗ്രന്ഥം കമ്പ്യൂട്ടറിലോ ആധുനിക ഇലക്ട്രോണിക് മാധ്യമങ്ങളിലോ ശേഖരിച്ചു വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വർക്ക് വെബ്സൈറ്റിലേക്ക് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ അഥവാ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇതിനെയെല്ലാം ഒരു വർക്കിൻറെ സാങ്കേതികമായ പുരോഗതി ആയിട്ടാണ് പരിഗണിക്കുന്നത് അതിനാൽ തന്നെ ഇവയെല്ലാംതന്നെ കോപ്പി റൈറ്റ് പ്രൊട്ടക്ഷൻറെ ഉള്ളിൽ വരുന്നു കലാസൃഷ്ടികളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഓവർ ലാപ് ചെയ്തുകിടക്കുന്ന അവകാശങ്ങളും ഉണ്ടായിരിക്കാം സൈമൾട്ടേനിയസ് ക്രിയേഷൻസ് എന്ന ഒരു അവസ്ഥ ഇണ്ടാകാം പേറ്റൻറ് ലോ യുടെ കാര്യത്തിൽ നമ്മൾ പരാമർശിച്ചു ഒരേസമയം രണ്ടാളുകൾ ഒരേപോലുള്ള ഇൻവെൻഷൻസ് കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണെങ്കിൽ നിയമം തർക്കത്തെ പരിഹരിക്കുന്നത് ആരാണ് ഏറ്റവും ആദ്യം ഇത് പൂർത്തിയാക്കി പുറത്തു കൊണ്ടു വന്നത് എന്ന് പരിശോധിച്ച് കൊണ്ടായിരിക്കും നിയമം ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കുന്നത് ട്രു ആൻറ് ഫസ്റ്റ് ഇൻവെന്റർ എന്ന ആശയത്തെ മുൻനിറുത്തിക്കൊണ്ടാണ് പേറ്റന്റ് ഓഫീസ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന രീതി ഫസ്റ്റ് ഫയൽ പ്രിൻസിപ്പലാണ് ഇന്ന് ലോകം മുഴുവനും പിന്തുടരുന്നത് ഫസ്റ്റ് ഫയൽ പ്രിൻസിപ്പലാണ് ആരാണ് ആദ്യം കണ്ടുപിടിച്ചത് എന്നതല്ല നോക്കുന്നത് മറിച്ച് ആരാണ് പേറ്റന്റ് ആഫീസിൽ ആദ്യം ഫയൽ ചെയ്തത് അയാൾക്കാണ് അവകാശം അനുവദിച്ചു നൽകുന്നത് പേറ്റന്റ് നിയമത്തിൽ ഇപ്രകാരമാണ് മുൻഗണനാക്രമം അനുവദിച്ചു നൽകുന്നത് എന്ന് വെച്ചാൽ രണ്ട് വ്യക്തികൾ ഒരേ സമയം ഒരേ കണ്ടുപിടുത്തവുമായി വരികയാണെങ്കിൽ ഒരു ദിവസം തന്നെ ഒരേ കണ്ടുപിടുത്തവുമായി വരികയാണെങ്കിൽ ആരാണ് പേറ്റന്റ് ആഫീസിൽ ആദ്യം ഫയൽ ചെയ്യുന്നത് ആ വ്യക്തിക്ക് ആയിരിക്കും കണ്ടുപിടുത്തത്തിൻറെ ഉടമസ്ഥാവകാശം പേറ്റന്റ് ആഫീസ് നൽകുന്നത് കോപ്പിറൈറ്റിൻറെ കാര്യത്തിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് നമുക്ക് ഒരേ സമയം 2 സൃഷ്ടികൾ ഉണ്ടാകാം ഒരേ സമയം ഉണ്ടായ ഒരേപോലെയുള്ള ഈ സൃഷ്ടികളിന്മേൽ ഓവർ ലാപ്പായ അവകാശങ്ങളും ഉണ്ടാകാം ഉദാഹരണത്തിന് രണ്ടു ഫോട്ടോഗ്രാഫർമാർ ഒരേ ദിവസം തന്നെ ചന്ദ്രഗ്രഹത്തിൻറെ ഫോട്ടോ എടുക്കുന്നു മാത്രമല്ല രണ്ടുപേരും എടുത്ത ഫോട്ടോ മിക്കവാറും ഒരേപോലെ കാണപ്പെടുന്നവയാണ് ഫോട്ടോ ഷൂട്ട് ചെയ്യുവാൻ രണ്ടുപേരും ഒരേ ഉപകരണമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതും പോരാ രണ്ടു പേരും ഒരേ ലൊക്കേഷനിൽ നിന്നാണ് ഫോട്ടോ ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇവർ ഈ കൃത്യം നിർവഹിച്ചത് പരസ്പരം അറിഞ്ഞുകൊണ്ടല്ലതാനും ഇക്കാര്യത്തിൽ കോപ്പിറൈറ്റ് നിയമപ്രകാരം രണ്ടുപേർക്കും അവരവരുടെ വർക്കിന്മേൽ കോപ്പിറൈറ്റ് അവകാശം ഉണ്ടായിരിക്കുന്നതാണ് ഒന്ന് മറ്റൊന്നിനേക്കാൾ മുൻപ് പിൻപ് എന്നിവിടെ പറയുകയില്ല മറിച്ച് ഒരേസമയം രണ്ടു വ്യത്യസ്ത സൃഷ്ടികൾ ഉണ്ടാകുകയാണ് പേറ്റന്റ് നിയമത്തിൽ പിന്തുടരുന്നത് പോലെ പ്രയർ ആർട്ട് ആയി പരിഗണിക്കുകയില്ല അപ്പോൾ സൃഷ്ടിപരമായ വർക്കുകളുടെ മുൻഗണന സംബന്ധിച്ച് സാധാരണഗതിയിൽ പേറ്റന്റ് നിയമത്തിൽ ഉണ്ടാകുന്നതുപോലെ കോപ്പിറൈറ്റ് നിയമത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല പേറ്റന്റ് നിയമത്തിൽ രജിസ്ട്രേഷനിൽ കൂടെയാണ് അവകാശം നിലവിൽ വരുന്നത് എന്നാൽ കോപ്പിറൈറ്റ് നിയമത്തിൽ ഒരു സൃഷ്ടി നടത്തി കഴിഞ്ഞാൽ ഇത് തൻറെ സൃഷ്ടിയാണ് എന്ന് ലോകത്തെ അറിയിക്കുന്നതിനായി കോപ്പിറൈറ്റ് നോട്ടീസ് അതിനോട് ചേർക്കുകയാണെങ്കിൽ ഉടനെതന്നെ അവകാശം നിലവിൽ വരികയാണ് അല്ലാതെ പേറ്റന്റ് നിയമത്തിൽ ഉള്ളത് പോലുള്ള രജിസ്ട്രേഷൻ നടപടികളുടെ ആവശ്യം ഇവിടെയില്ല അതുകൊണ്ട് കോപ്പിറൈറ്റ് നിയമവ്യവസ്ഥയിൽ ഒരേ സമയം രണ്ട് സൃഷ്ടികൾ ഉണ്ടാകുന്നതിന് അനുവദിക്കുന്നു രണ്ടു സൃഷ്ടികൾക്കും ഓവർ ലാപ്പിങ്സൈമൾട്ടേനിയസ് overlapinsimultaneous റൈറ്റ്സും അനുവദിക്കുന്നു കോപ്പിറൈറ്റ് സംരക്ഷിക്കുന്നത് ആശയങ്ങളുടെ ആവിഷ്കാരത്തെയാണ് ആശയങ്ങളെ അല്ല കോപ്പിറൈറ്റുകളെ പറ്റി മനസ്സിലാക്കുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട നിയമമാണ് ഇതിനെ ഐഡിയ എക്സ്പ്രഷൻ ഡികോട്ടമി ഇൻ കോർപ്പറേറ്റ് ലോ എന്ന് വിളിക്കുന്നു ഇത് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആശയങ്ങൾ ഉണ്ടാകാം എന്നാൽ കോപ്പിറൈറ്റ് വ്യാപ്തി ആശയങ്ങളുടെ ആവിഷ്കാരത്തിൽ മാത്രമാണ് ഇതൊരു നല്ല ആശയമാണ് കാരണം നമ്മൾ നോവലുകളുടെ പല ഇനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് കുറ്റാന്വേഷണ നോവലുകൾ എല്ലാ കുറ്റാന്വേഷണ നോവലുകളും തന്നെ ഒരേ ആശയമാണ് പിന്തുടരുന്നത് ആ കഥയിൽ ഒരു സംഭവം ഒരുപക്ഷേ ഒരു കൊലപാതകം ഉണ്ടായിരിക്കും അതാരാണ് ചെയ്തത് എന്നതിനെകുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരിക്കും കൊലപാതകത്തെ പറ്റി അന്വേഷിക്കുന്ന ഒരു കുറ്റാന്വേഷകൻ ഉണ്ടായിരിക്കും കഥയിലുടനീളം കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള സൂചനകൾ ഉണ്ടായിരിക്കും മിക്കവാറും എല്ലാ സൂചനകളും തന്നെ തെറ്റായ രീതിയിൽ നയിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനം തീരെ നിനച്ചിരിക്കാത്ത ഒരു വ്യക്തിയെ കൊലപാതകിയായി കണ്ടെത്തുകയും ചെയ്യും സാധാരണരീതിയിൽ ഇത്രയുമാണ് ഒരു കുറ്റാന്വേഷണ കഥയുടെ ഉള്ളടക്കം അഗത ക്രിസ്റ്റി അനേകം കുറ്റാന്വേഷണ നോവലുകൾ എഴുതിയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ് എല്ലാം തന്നെ ഒരേ ഇനത്തിൽ പെടുന്നു എങ്കിലും മിക്കവാറും എല്ലാ കഥകളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രതിപാദനം ചെയ്തിരിക്കുന്നത് ആശയങ്ങൾക്കാണ് കോപ്പിറൈറ്റ് സംരക്ഷണം നൽകുന്നത് എങ്കിൽ അഗതാ ക്രിസ്റ്റിയുടെ ഏറ്റവും ആദ്യത്തെ നോവലിന് മാത്രമേ കോപ്പിറൈറ്റ് ലഭിക്കുമായിരുന്നുള്ളൂ കാരണം കൊലപാതകത്തെ ഒരു കുറ്റാന്വേഷകൻ പരിഹരിക്കുന്നു എന്ന ഒരു ആശയമാണ് എല്ലാ നോവലുകളിലും ആദ്യത്തെ നോവൽ പ്രൊട്ടക്ഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു കൊലപാതകരഹസ്യം ഉള്ള നോവൽ ഉണ്ടാവുക സാധ്യമല്ല അതുകൊണ്ടാണ് കോപ്പി റൈറ്റ് നിയമം ആശയങ്ങളെ അല്ല സംരക്ഷിക്കുന്നത് മറിച്ച് ആശയങ്ങളുടെ ആവിഷ്കാരത്തെ ആണ് സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നത് എന്നുവെച്ചാൽ വിവിധ എഴുത്തുകാരാൽ എഴുതപ്പെട്ട എല്ലാ കുറ്റാന്വേഷണ കഥകളും അതിൽ മരണത്തെ വേറെ വേറെ ലൊക്കേഷനുകളിൽ ക്രമീകരിച്ചു വ്യത്യാസപ്പെട്ട കഥാപാത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യാസപ്പെട്ട പ്ലോട്ടുകൾ നിർമ്മിക്കുകയും വ്യത്യസ്തമായ രീതിയിൽ കഥാതന്തുവിനെ മുന്നോട്ടു കൊണ്ടുപോവുകയും ചെയ്യുന്നു കോപ്പിറൈറ്റ് ആശയങ്ങളെ അല്ല ആശയങ്ങളുടെ ആവിഷ്കാരത്തെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്കാര്യങ്ങളാണ് ആശയങ്ങളുടെ ആവിഷ്കാരത്തെ മാത്രമേ സംരക്ഷിക്കുന്നുള്ളൂ ആശയങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നതിന് ചില ദോഷവശങ്ങൾ ഉണ്ട് ആരെങ്കിലും ക്വിസ് കോമ്പറ്റീഷൻ എന്ന ഒരു ആശയവുമായി വരുന്നു ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടേണ്ട ഒരു ഇവൻറൊണ് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നത് ഇദ്ദേഹമാണ് ക്വിസ് കോമ്പറ്റീഷന് ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും അദ്ദേഹം വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് നടത്തപ്പെടേണ്ടത് എങ്ങനെയാണ് മത്സരാർത്ഥികൾ ഒരു സെക്ഷനിൽ നിന്നും മറ്റൊരു സെക്ഷനിലേക്ക് നീങ്ങേണ്ടത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എങ്ങനെയാണ് അവർക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള തെരഞ്ഞെടുപ്പുകൾ നൽകേണ്ടത് എന്നുതുടങ്ങി ഒരു ക്വിസ് നടത്തുന്നതിന് ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ഇദ്ദേഹമാണ് ആസൂത്രണം ചെയ്തതും ക്രമീകരിച്ചതും ഇപ്പോഴും ആശയതലത്തിൽ തന്നെ നിൽക്കുകയാണ് കാരണം ആശയം ഒരിക്കലും അതിൽ തന്നെ ഉൽപന്നം അല്ല ആശയത്തെ ആരെങ്കിലും പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ക്വിസ് നടത്തണം ടിവി ചാനലുകളിൽ സംപ്രേഷണം ചെയ്യണം പൊതുജനത്തിന് അതിൽ പങ്കെടുക്കാനുള്ള അവസരം നൽകണം കാരണം ക്വിസ് നടത്തുക എന്ന ആ ഇവൻറിനെ സംരക്ഷിക്കാത്തിടത്തോളം ആശയത്തെ സംരക്ഷിക്കുക സാധ്യമല്ല നിയമം ആവിഷ്കാരത്തെ മാത്രമാണ് സംരക്ഷിക്കുന്നത് കോപ്പിറൈറ്റ് കാലാവധി എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ കാലഘട്ടമാണ് കോപ്പിറൈറ്റ് നൽകുന്നത് ഓതറുടെ ജീവിതകാലവും അദ്ദേഹത്തിൻറെ മരണശേഷം 60 വർഷവുമാണ് ലൈഫ് ഓഫ് ദി ഓതർ പ്ലസ് സിക്സ്റ്റി ഇയേഴ്സ് ഇന്ത്യയിൽ സാധാരണഗതിയിൽ കോപ്പിറൈറ്റ് ഉടമസ്ഥൻ എന്ന് പറയുന്നത് നിർമ്മാതാവ് തന്നെയായിരിക്കും അതായത് ഗ്രന്ഥകാരൻ ചില കേസുകളിൽ അത് ഒരുപക്ഷേ തൊഴിലുടമ ആകാൻ സാധ്യതയുണ്ട് തൊഴിൽലുടമ ശമ്പളത്തിന് ആളുകളെ നിയമിച്ച് സൃഷ്ടികൾ നടത്തുന്നു തൊഴിൽ കരാർ പ്രകാരം അങ്ങനെ നടത്തുന്ന സൃഷ്ടികളുടെ കോപ്പിറൈറ്റ് അവകാശം തൊഴിലുടമയ്ക്കുള്ളതായിരിക്കും കോപ്പിറൈറ്റ് കൈമാറാനും സാധിക്കുന്നതാണ് മരണ പത്രത്തിലൂടെ ഒരു ഗ്രന്ഥ കർത്താവിന് തൻറെ കോപ്പിറൈറ്റ് അവകാശം തൻറെ മക്കൾക്ക് കൈമാറുവാൻ സാധിക്കും അല്ലെങ്കിൽ ലൈസൻസ് വഴി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കോപ്പിറൈറ്റ് അവകാശം മറ്റൊരു വ്യക്തിക്ക് കൈമാറുന്നതാണ് കോപ്പി റൈറ്റിൽ ചില ധാർമിക അവകാശങ്ങളും നിലനിൽക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു കോപ്പിറൈറ്റ് സാധാരണയായി മറ്റുള്ള ആളുകളെ കോപ്പിറൈറ്റ്ഡ് വർക്ക് കോപ്പി ചെയ്യുന്നതിൽ നിന്നും സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്നും വിൽക്കുന്നതിൽ നിന്നും എല്ലാം തടയുന്നു എന്ന് എന്നാൽ അതോടൊപ്പം ചില ധാർമിക അവകാശങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട് ഗ്രന്ഥകർത്താവിന് ഗ്രന്ഥകർത്താവ് എന്ന പേരിൽ തന്നെ അറിയപ്പെടുന്നതിനുള്ള ഒരു ധാർമിക അവകാശം ഉണ്ട് ഒരാളുടെ വർക്കിനെ വിലകുറച്ചു കാണുന്നതോ തരംതാഴ്ത്തി കാണുന്നതോ ആയ അവസ്ഥയെ തടയുന്നതിന് കോപ്പിറൈറ്റിന് അവകാശമുണ്ട് അത് ഒരു ധാർമിക അവകാശമാണ് ഇതിന് സമാന്തരമായി പേറ്റന്റ് ലോയിൽ ഇൻവെന്റർക്ക് ഇൻവെന്റർ എന്ന രീതിയിൽ അറിയപ്പെടുന്നതിനുള്ള ധാർമിക അവകാശം ഉണ്ട് ഒരുപക്ഷേ തൊഴിലാളി എന്ന നിലയിൽ തൊഴിൽ കരാർ പ്രകാരം അദ്ദേഹം കണ്ടുപിടിക്കുന്ന വസ്തുക്കളുടെ ഉടമസ്ഥാവകാശം തൊഴിലുടമയ്ക്ക് ആണെന്നിരിക്കെ അത് കണ്ടുപിടിച്ചത് താനാണ് എന്ന് രേഖപ്പെടുത്തപ്പെടാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് ഇവിടെ അദ്ദേഹം കണ്ടുപിടുത്തത്തിൻറെ ഉടമസ്ഥൻ അല്ല എന്നാൽ അദ്ദേഹമാണ് കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് ഉടമസ്ഥത അദ്ദേഹം മറ്റൊരാൾക്ക് കൈമാറി കൊടുക്കുകയാണ് അവകാശം അദ്ദേഹം വേണ്ടെന്നു വെക്കുന്നു ഇങ്ങനെ അദ്ദേഹം ഉടമസ്ഥത വേണ്ട എന്ന് വയ്ക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹമാണ് ഇൻവെന്റർ എന്ന് തിരിച്ചറിയപ്പെടാൻ ഉള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് ഇതേപോലെ തന്നെ കോപ്പിറൈറ്റിൻറെ കാര്യത്തിലും ഗ്രന്ഥകർത്താവ് അല്ല കോപ്പിറൈറ്റ് ഓണർ എന്നിരിക്കലും ഗ്രന്ഥത്തിൻറെ കർത്താവ് അദ്ദേഹമാണ് എന്ന് അറിയപ്പെടാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു സൃഷ്ടിയുടെ കോപ്പിറൈറ്റ് വേറൊരാളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് അത് കൈമാറ്റത്തിലൂടെ ആകാം അല്ലെങ്കിൽ ഗ്രന്ഥകർത്താവ് ആ വർക്ക് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതായിരിക്കാം മറ്റൊരാൾ ഗ്രന്ഥ കർത്താവിനെ ഈ വർക്കിന് വേണ്ടി ഹയർ ചെയ്തതായിരിക്കാം ഇങ്ങനെയാണെങ്കിലും ഓതറുടെ പേരിൻറെ സ്ഥാനത്ത് അവരുടെ പേര് തന്നെ വരണം ഗ്രന്ഥകർത്താവിന് അതിനുള്ള അവകാശമുണ്ട് കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ട ഒരു വർക്ക് തരംതാഴ്ത്തിയോ വിലകുറച്ചോ കാണുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക പരമ്പരാഗതമായി ഡിഫാമേഷ്യൻ എന്ന നിയമത്തിലാണ് അതിൻറെ റിലീഫ് ഇരിക്കുന്നത് സിവിൽ നിയമലംഘനത്തിൽ അതിനുള്ള ഉപാധികളുണ്ട് നിങ്ങൾക്ക് കോടതിമുമ്പാകെ ഡിഫാമേഷ്യനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാവുന്നതാണ് എന്നാൽ ഇപ്പോൾ ധാർമിക അവകാശങ്ങളും കോപ്പിറൈറ്റ് അവകാശത്തിൻറെ പരിധിക്കുള്ളിൽ വരുന്നതിനാൽ ഗ്രന്ഥകർത്താവിന് ധാർമിക അവകാശം ലംഘനത്തിന് എതിരെ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് കോപ്പിറൈറ്റിൻറെ സബ്ജക്ട് മാറ്റർ ബുദ്ധിയുടെ ഗുണപരതയെ അടിസ്ഥാനമാക്കിയല്ല നിലകൊള്ളുന്നത് നിങ്ങൾക്ക് ബില്ലുകളിന്മേലോ കൂപ്പണുകളിന്മേലോ ടെലഫോൺ ഡയറക്ടറിയുടെ ഡാറ്റാബേസിന്മേലോ കോപ്പിറൈറ്റ് അവകാശപ്പെടാവുന്നതാണ് ഒരു കോപ്പി റൈറ്റഡ് വർക്കിൻറെ മൂല്യം നിലകൊള്ളുന്നത് അതിന്മേൽ നടത്തിയ മൂലധനനിക്ഷേപം ആയി കരുതുന്നു കാരണം അങ്ങനെ ഒരു സൃഷ്ടി നടത്തുന്നതിന് വളരെ വലിയ അളവിലുള്ള ഒരു പരിശ്രമം നടന്നിട്ടുണ്ടാകണം അതുകൊണ്ടുതന്നെയാണ് കോപ്പിറൈറ്റ് ചെയ്യപ്പെട്ട സൃഷ്ടികൾ സംരക്ഷിക്കപ്പെടണം അവയ്ക്ക് മൂല്യമുണ്ട് എന്ന് പറയുന്നത് ആ മൂല്യം അവയിൽ നടത്തിയിരിക്കുന്ന മൂലധനനിക്ഷേപം ആണ് നമ്മൾ മുൻ ക്ലാസുകളിൽ പറയുകയുണ്ടായിട്ടുണ്ട് അതായത് ഇന്റെലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഭാവാത്മകമായ നിർമ്മാണപ്രവർത്തനങ്ങളിൽ മൂലധന നിക്ഷേപം നടത്തുവാനുള്ള പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്നു എന്ന് ഇങ്ങനെ നടത്തുന്ന നിക്ഷേപം പിന്നീട് ഇൻടാൻജിബിൾ അസ്സറ്റായി മാറുകയും ചെയ്യുന്നു